ക്രോസ്സ് വാലിഡേഷൻ റിഗ്രെഷനെക്കുറിച്ചുള്ള അവസാനത്തെ ലെക്ച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ലെക്ച്ചറിൽ ഞാൻ ക്രോസ് വാലിഡേഷൻ എന്ന ആശയം അവതരിപ്പിക്കാൻ പോകുന്നു ഇത് മോഡൽ നിർമ്മാണത്തിൽ വളരെ ഉപയോഗപ്രദമാണ് ഒരു മോഡലിന്റെ മെറ്റാ പാരാമീറ്ററുകളുടെയോ ഹൈപ്പർ പാരാമീറ്ററുകളുടെയോ എണ്ണം എന്ന് നമ്മൾ വിളിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നതാണ് ക്രോസ് വാലിഡേഷന്റെ പ്രധാന ലക്ഷ്യം ഈ ലെക്ച്ചർ സീരീസിൽ നമ്മൾ പ്രധാന ഘടക വിശകലനം അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും ഡാറ്റാ അനലിറ്റിക്സിനെക്കുറിച്ചുള്ള ഉയർന്ന മുൻകൂർ കോഴ്സിൽ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ പ്രധാന ഘടകങ്ങളെക്കുറിച്ചുള്ള ഈ ആശയം നിങ്ങൾ കാണും കൂടാതെ പ്രധാന ഘടക വിശകലനത്തിലെ പ്രശ്നങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പ്രസക്തമായ പ്രധാന ഘടകങ്ങളുടെ എണ്ണം നമ്മൾ ഇതിനെ ഒരു ഹൈപ്പർ പാരാമീറ്റർ അല്ലെങ്കിൽ മോഡലിന്റെ മെറ്റാ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു അതുപോലെ പിന്നീട് ഈ കോഴ്സിൽ നിങ്ങൾ ക്ലസ്റ്ററിംഗ് കാണും പ്രത്യേകിച്ചും K എന്നാൽ ക്ലസ്റ്ററിംഗ് എന്നാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ വീണ്ടും ഡാറ്റ ഗ്രൂപ്പുചെയ്യാൻ ആവശ്യമായ ക്ലസ്റ്ററുകളുടെ എണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കൂടാതെ ക്ലസ്റ്ററുകളുടെ എണ്ണത്തെ ക്ലസ്റ്ററിംഗ് മോഡലിംഗിന്റെ മെറ്റാ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു അതുപോലെ നിങ്ങൾ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ നിർമ്മിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഒരു പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ എടുക്കാം അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ x എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പോളിനോമിയൽ ഫംഗ്ഷനായി എഴുതിയിരിക്കുന്നു ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്ക് റിഗ്രഷൻ മോഡൽ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ ലീനിയർ ഭാഗമായ y β0 β1 ആയി എഴുതാം നിങ്ങൾക്ക് β2 x2 β3 x3 βn xn പോലുള്ള നോൺ ലീനിയർ പദങ്ങളും ഉൾപ്പെടുത്താം ഇത് പോളിനോമിയൽ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശ്രദ്ധിക്കുക പോളിനോമിയൽ മോഡൽ ഈ മോഡലിന്റെ പാരാമീറ്ററുകളും മൾട്ടി ലീനിയർ റിഗ്രഷൻ ഉപയോഗിച്ച് ലഭിക്കും x ഒരു വേരിയബിളായും x2 വേരിയബിളായും xn എന്നത് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കണക്കാക്കിയ മറ്റൊരു വേരിയബിളായും എടുക്കുകയാണെങ്കിൽ β0 β1 βn എന്നിങ്ങനെയുള്ള പരാമീറ്ററുകൾ കണക്കാക്കാൻ നിങ്ങൾക്ക് മൾട്ടി ലീനിയർ റിഗ്രഷൻ രീതികൾ ഉപയോഗിക്കാം ഇവിടെയും x ന്റെ എത്ര പവറുകൾ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ x ന്റെ ഉയർന്ന പവറുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ പവറിനും അനുസൃതമായി നിങ്ങൾക്ക് കണക്കാക്കേണ്ട ഒരു അധിക പാരാമീറ്റർ ലഭിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പോളിനോമിയലിന്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയായി xn തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് n 1 പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കും t യിലേക്കുള്ള പോളിനോമിയലിന്റെ ഡിഗ്രി തിരഞ്ഞെടുക്കുന്നത് വീണ്ടും നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ഒരു മെറ്റാ പാരാമീറ്ററാണ് അതിനാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം മികച്ച മോഡൽ ലഭിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട മെറ്റാ പാരാമീറ്ററിന്റെ ഒപ്റ്റിമൽ നമ്പർ മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകളുടെ ഒപ്റ്റിമൽ നമ്പർ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ട്രെയിനിങ് ഡാറ്റയുടെ മീൻ സ്ക്വയർ എറർ നോക്കുന്നതിലൂടെ ഇത് നേടുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഈ പോളിനോമിയൽ മോഡൽ എടുക്കുകയാണെങ്കിൽ ട്രെയിനിങ് ഡാറ്റയുടെ മീൻ സ്ക്വയർ എറർ കണക്കാക്കുക ഇത് β0 β1 βn വരെയുള്ള ഏറ്റവും അനുയോജ്യമായ പാരാമീറ്ററുകൾ നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം y ŷ എന്നിവ തമ്മിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല x x2 എന്നിവയുടെ മൂല്യം കൊടുത്തു കൊണ്ട് നിങ്ങൾക്ക് ഓരോ ഡാറ്റയ്ക്കും പ്രവചിക്കാം നിങ്ങൾ ŷ ഉം പ്രവചിക്കുന്നു y ŷ എന്ന വ്യത്യാസം കണക്കാക്കുക ഇവയുടെ വർഗ്ഗത്തിന്റെ ആകെത്തുകയെ മീൻ സ്ക്വയർ എറർ എന്ന് വിളിക്കുന്നു അതിനാൽ പാരാമീറ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം കണ്ടെത്തുന്നതിനുള്ള ഒരു അളവുകോലായി ട്രെയിനിങ് ഡാറ്റയുടെ മീൻ സ്ക്വയർ എറർ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ അത് ശരിയല്ല കാരണം നമ്മൾ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉയർന്ന ഓർഡർ നിബന്ധനകൾ ചേർക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങൾ മീൻ സ്ക്വയർ എറർ കുറയുന്നത് കണ്ടെത്തുക അതിനാൽ ആത്യന്തികമായി ഓവർ ഫിറ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്ന പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ മീൻ സ്ക്വയർ എറർ 0 ആയി കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും മോഡലിൽ മതിയായ എണ്ണം പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ മീൻ സ്ക്വയർ എറർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും 0 ആയി ലഭിക്കും അതിനാൽ മോഡലിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും മികച്ച എണ്ണം ഒപ്റ്റിമൽ നമ്പർ പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ട്രെയിനിങ് ഡാറ്റ സെറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ ക്രോസ് വാലിഡേഷൻ എന്ന് വിളിക്കുന്നു ട്രൈനിങ്ങിൽ ഉപയോഗിക്കാത്ത മറ്റൊരു ഡാറ്റാ സെറ്റിലാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ വാലിഡേഷൻ ഡാറ്റാ സെറ്റ് എന്ന് വിളിക്കുന്നു ഈ മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകൾ അല്ലെങ്കിൽ മെറ്റാ പാരാമീറ്ററുകൾ തീരുമാനിക്കുന്നതിന് നമ്മൾ വാലിഡേഷൻ ഡാറ്റ സെറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ ക്രോസ് വാലിഡേഷൻക്കുറിച്ചുള്ള ഈ ആശയം ചിത്രീകരിക്കുന്നതിന് നമ്മൾ ഈ പോളിനോമിയൽ റിഗ്രഷൻ മോഡൽ ഉടനീളം ഒരു ഉദാഹരണമായി ഉപയോഗിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ മോഡൽ സങ്കീർണ്ണത അല്ലെങ്കിൽ മോഡലിന്റെ മെറ്റാ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ടെസ്റ്റ് സെറ്റിലെ മീൻ സ്ക്വയർ എറർ തുടർച്ചയായി കുറയുന്നതായി നിങ്ങൾ കണ്ടെത്തും അതിനാൽ പരിശീലന സെറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ അത് 0 ലേക്ക് പോകും എന്നിരുന്നാലും വാലിഡേഷൻ സെറ്റിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എറർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അത് തുടക്കത്തിൽ കുറയും എന്നാൽ ഒരു നിശ്ചിത പോയിന്റിനപ്പുറം വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എറർ വർദ്ധിക്കും അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പാരാമീറ്ററുകളുടെ ഒപ്റ്റിമൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മോഡൽ സങ്കീർണ്ണത വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എററിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യവുമായി പൊരുത്തപ്പെടുന്നു ഇതിനെ ഒപ്റ്റിമൽ മോഡൽ എന്ന് വിളിക്കുന്നു ഒപ്റ്റിമൽ മോഡലിനേക്കാൾ കുറച്ച് പാരാമീറ്ററുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഫിറ്റിംഗിന് കീഴിൽ വിളിക്കുന്നു മറുവശത്ത് നിങ്ങളുടെ മോഡലിൽ കൂടുതൽ പാരാമീറ്ററുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒപ്റ്റിമൽ മോഡൽ മൂല്യത്തെ ഓവർ ഫിറ്റിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഫിറ്റിംഗ് ഓവർ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഡാറ്റ വിശദീകരിക്കുന്നതിന് നിങ്ങൾ അനാവശ്യമായി കൂടുതൽ പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്നു എന്നാണ് മറുവശത്ത് നിങ്ങൾ കുറച്ച് പാരാമീറ്ററുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വേണ്ടത്ര നിങ്ങളുടെ മോഡൽ അത്ര കൃത്യമാകില്ല സാധാരണഗതിയിൽ മോഡലിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നതിന് രണ്ട് അളവുകൾ ഉണ്ട് ഒന്നിനെ നിങ്ങളുടെ പ്രവചന എററിലെ ബയസ് എന്ന് വിളിക്കുന്നു നിങ്ങൾ മോഡലിന്റെ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബയസ് പദത്തിന്റെ ഈ ബയസ് സ്ക്വയർ കുറയാൻ തുടങ്ങും എന്നിരുന്നാലും മോഡൽ സങ്കീർണ്ണത അല്ലെങ്കിൽ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മോഡൽ പ്രവചനങ്ങളിലെ വ്യതിയാനം വർദ്ധിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഇവ രണ്ടും തമ്മിലുള്ള മാറ്റമാണ് വാലിഡേഷൻ സെറ്റിൽ MSE യുടെ ഈ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിന് കാരണമാകുന്നത് അതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ കുറയുന്ന ബയസും മോഡലിലെ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനവും തമ്മിലുള്ള ഈ ഒപ്റ്റിമൽ ട്രേഡ് ഓഫ് ആഗ്രഹിക്കുന്നു അതിനാൽ ക്രോസ് വാലിഡേഷൻത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇതാണ് നിങ്ങൾക്ക് ഒരു വലിയ ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ ഡാറ്റ സെറ്റ് 2 ഭാഗങ്ങളായി വിഭജിക്കാം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഒന്ന് സാധാരണയായി നിങ്ങൾ പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഡാറ്റാ സാമ്പിളുകളുടെ 70 ശതമാനവും ബാക്കിയുള്ളവ വാലിഡേഷൻനായി മാറ്റിവെക്കും അതിനാൽ പരിശീലനത്തിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പിളുകളെ നമുക്ക് x1 y1 x2 y2 എന്നിങ്ങനെ വിളിക്കാം കൂടാതെ x ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പ്രതിനിധീകരിക്കുന്നിടത്ത് y എന്നത് ഡിപെൻഡന്റ് വേരിയബിളാണ് വാലിഡേഷൻ സെറ്റ് വാലിഡേഷൻ സെറ്റിൽ n t നിരീക്ഷണങ്ങൾ ഉള്ളിടത്ത് നമ്മൾ അതിനെ x0 i y0 i എന്നീ ചിഹ്നങ്ങളാൽ സൂചിപ്പിക്കും അതിനാൽ സാധാരണയായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ധാരാളം സാമ്പിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശീലനത്തിനായി 70 ശതമാനം സാമ്പിളുകൾ വേർതിരിക്കാം ബാക്കി 30 ശതമാനം വാലിഡേഷൻനായി ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തീർച്ചയായും മോഡൽ നിർമ്മിച്ചതിന് ശേഷം പരിശീലന സെറ്റിലെ മീൻ സ്ക്വയർ എറർ നിർവചിക്കാം അതിനാൽ ഇത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ അളന്നതും നിരീക്ഷിച്ചതുമായ മൂല്യം തമ്മിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ പാരാമീറ്ററുകൾ കണക്കാക്കിയ ശേഷം പ്രവചിച്ച മൂല്യം ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം അതിനാൽ ട്രയിനിങ് ഡാറ്റ സ്ക്വയറിലെ എല്ലാ സാമ്പിളുകളുടെയും മീൻ എടുത്ത പ്രവചന എറർ ആണിത് അതാണ് നമ്മൾ മുമ്പ് കണ്ട മീൻ സ്ക്വയർ എറർ വാലിഡേഷൻ സെറ്റിനും സമാനമായ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും വാലിഡേഷൻ സാമ്പിൾ സെറ്റിലെ അളന്ന മൂല്യം അല്ലെങ്കിൽ നിരീക്ഷിച്ച മൂല്യം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എടുക്കാം വാലിഡേഷൻ സാമ്പിളുകൾക്കായുള്ള പ്രവചിച്ച മൂല്യം വീണ്ടും നിങ്ങൾക്ക് നിരീക്ഷണം തമ്മിലുള്ള ആകെ സ്ക്വയർ വ്യത്യാസം എടുക്കാം എല്ലാ സാമ്പിളുകളേക്കാൾ സ്ക്വയർ ചെയ്ത വാലിഡേഷൻ സെറ്റിന്റെ പ്രവചിച്ച മീൻ മൂല്യം അതിനാൽ അതിനെ ടെസ്റ്റിലെ അല്ലെങ്കിൽ വാലിഡേഷൻലെ മീൻ സ്ക്വയർ എറർ എന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകൾ തീരുമാനിക്കുന്നതിന് പരിശീലനത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക പദം MSE ഉപയോഗപ്രദമല്ല എന്നിരുന്നാലും ഈ ടെസ്റ്റ് MSE ടെസ്റ്റ് അല്ലെങ്കിൽ മീൻ സ്ക്വയർ എറർ അല്ലെങ്കിൽ വാലിഡേഷൻ ഡാറ്റ സെറ്റ് ആണ് മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകൾ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ധാരാളം സാമ്പിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യഥാർത്ഥത്തിൽ ഒരു പരിശീലന സെറ്റായി ഒരു മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു വാലിഡേഷൻ സെറ്റായി വിഭജിക്കാം ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്റ്റിമൽ മോഡൽ എത്രത്തോളം നല്ലത് ആണെന്ന് വിലയിരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ടെസ്റ്റ് സെറ്റിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതാണ് സാധാരണയായി നിങ്ങൾ ഡാറ്റാ സെറ്റ് എടുത്ത് അതിനെ മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കുന്നു ഒന്ന് പരിശീലന സെറ്റ് പാരാമീറ്ററുകളുടെ ഒപ്റ്റിമൽ നമ്പർ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മൂല്യനിർണ്ണയ സെറ്റ് ഒടുവിൽ നിങ്ങൾ നിർമ്മിച്ച ഒപ്റ്റിമൽ മോഡൽ മതിയായത് ആണോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് സെറ്റ് ഈ പ്രത്യേക ലെക്ച്ചറിലെ ടെസ്റ്റ് സെറ്റിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല ഈ വാലിഡേഷൻ സെറ്റിനെക്കുറിച്ച് മാത്രമേ നമ്മൾ വിഷമിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് വലിയ അളവിലുള്ള സാമ്പിളുകൾ ഇല്ലെങ്കിൽ പരിശീലന സെറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു വാലിഡേഷൻ സൃഷ്ടിക്കും K ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ബൂട്ട്സ്ട്രാപ്പിംഗ് എന്നിങ്ങനെയുള്ളവ ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണും നിങ്ങൾക്ക് മതിയായ ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യും ആവശ്യമായത്ര സാമ്പിളുകൾ എവിടെയുണ്ടെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും അടിസ്ഥാനപരമായി നമ്മൾക്ക് n സാമ്പിളുകൾ ഉണ്ട് നിങ്ങൾക്ക് അത് n t സാമ്പിളുകളും വാലിഡേഷൻത്തിനായി നിങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശേഷിക്കുന്ന സാമ്പിളുകളും അടങ്ങുന്ന പരിശീലന സെറ്റിലേക്ക് വിഭജിക്കാം നമ്മൾ വിളിക്കുന്ന ഹോൾഡ് ഔട്ട് സാമ്പിൾ ഇതാണ് പരിശീലന സെറ്റ് മാത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ മോഡൽ നിർമ്മിക്കുന്നത് നിങ്ങൾ മോഡൽ നിർമ്മിച്ചതിന് ശേഷം അത് പരിശോധിച്ചതിന് ശേഷം വാലിഡേഷൻ സെറ്റിൽ m സ്ക്വയർ മീഡിയൻ സ്ക്വയർ എറർ കണ്ടെത്തുക പാരാമീറ്ററിന്റെ ഓരോ ചോയിസിനും ഇത് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ മോഡൽ ഉണ്ടെങ്കിൽ ഒരു ലീനിയർ മോഡൽ നല്ലതാണോ എന്ന് നിങ്ങൾ ആദ്യം കാണും തുടർന്ന് നിങ്ങൾ ക്വാഡ്രാറ്റിക് മോഡലായും ക്യൂബിക് മോഡലായും മറ്റും പരിശോധിക്കും നിങ്ങൾ പോളിനോമിയലിന്റെ ഡിഗ്രി വർധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ സാഹചര്യത്തിലും പരിശീലന സെറ്റ് ഉപയോഗിച്ച് മോഡൽ നിർമ്മിക്കുക ആ പ്രത്യേക മോഡലിന്റെ MSE വാലിഡേഷൻ സെറ്റിൽ എങ്ങനെയുണ്ടെന്ന് കാണുക കൂടാതെ ഈ MSE വാലിഡേഷൻ സെറ്റിൽ പ്ലോട്ട് ചെയ്യുക ഒരു ഉദാഹരണത്തിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് തുടർന്ന് പാരാമീറ്ററിന്റെ ഒപ്റ്റിമൽ നമ്പർ എങ്ങനെ തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണുക ചില ഓട്ടോമൊബൈലുകളുടെ മൈലേജിന്റെയും എഞ്ചിന്റെ ഹോഴ്സ് പവറിന്റെയും ഉദാഹരണം പ്രധാനമായും ഈ പ്രത്യേക ഡാറ്റാ സെറ്റിൽ 300 ഡാറ്റ പോയിന്റുകൾ അടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വേണ്ടത്ര വലുതാണ് എന്നാൽ ഇത് വേണ്ടത്ര വലുതല്ലെന്ന് നമ്മൾ അനുമാനിക്കാൻ പോകുന്നു ഈ ഡാറ്റാ സെറ്റിൽ നമ്മൾ വാലിഡേഷൻ ക്രോസ് വാലിഡേഷൻ സമീപനവും ഉപയോഗിക്കുന്നു ഹോഴ്സ് പവറും മൈലേജും നൽകുന്ന 300 ഓ അതിലധികമോ ഓട്ടോമൊബൈലുകൾ വ്യത്യസ്ത തരം ഓട്ടോമൊബൈലുകൾ എന്നിവ നമ്മുടെ പക്കലുണ്ട് മൈലേജിനും ഹോഴ്സ് പവറിനും ഇടയിലുള്ള ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ നോൺ ലീനിയർ മോഡൽ നമ്മൾ ഉൾക്കൊള്ളാൻ പോകുന്നു തീർച്ചയായും നമുക്ക് ഒരു ലീനിയർ മോഡലും പരീക്ഷിക്കാം എന്നാൽ ഒരു പോളിനോമിയൽ മോഡൽ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ക്യൂബിക് മോഡലുകളും മറ്റും പരീക്ഷിക്കാമെന്നാണ് ഇതാണ് നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത് നമ്മൾ പോളിനോമിയലിന്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എറർ ആണ് അതിനാൽ ഇതിൽ 70 ശതമാനം പരിശീലനത്തിനും ബാക്കിയുള്ള 30 ശതമാനം അല്ലെങ്കിൽ 100 ഡാറ്റ പോയിന്റുകൾ അല്ലെങ്കിൽ വാലിഡേഷൻനായി നമ്മൾ എടുക്കുന്നു എന്ന് കരുതുക കൂടാതെ പോളിനോമിയൽ ഓർഡറിന്റെ വ്യത്യസ്ത ചോയ്സുകൾക്കായുള്ള വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എറർ നമ്മൾ നോക്കുന്നു ഈ സാഹചര്യത്തിൽ ആദ്യത്തെ പോളിനോമിയൽ ഡിഗ്രി 1 ആണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു ലീനിയർ മോഡൽ എടുക്കുന്നു 2 ന് നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് മോഡൽ ഘടിപ്പിക്കുന്നു 3 ന് ഒരു ക്യൂബിക് മോഡലും ക്വാർട്ടിക് മോഡലും സൂചിപ്പിക്കുന്നു ഡിഗ്രി 10 വരെ നിങ്ങൾ പോളിനോമിയൽ ഓർഡർ വർദ്ധിപ്പിക്കുമ്പോൾ വാലിഡേഷൻ ഡാറ്റാ സെറ്റിലെ മീൻ സ്ക്വയർ എറർ എങ്ങനെയാണെന്ന് കാണിച്ചുതന്നു മൂല്യം 2 ൽ കൂടുതലോ കുറവോ കുറഞ്ഞോ എത്തുന്നുവെന്നും പിന്നീട് അത് കാര്യമായി മാറുന്നില്ലെന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും സാധാരണഗതിയിൽ ഇത് യഥാർത്ഥത്തിൽ വർദ്ധിക്കാൻ തുടങ്ങണം എന്നാൽ മിക്ക ട്രെയിനിങ് ഡാറ്റാ സെറ്റുകളിലും വാലിഡേഷൻ സെറ്റിലെ മീൻ സ്ക്വയർ എറർ പരന്നതും പോയിന്റിനപ്പുറം ഗണ്യമായി കുറയുന്നില്ലെന്നും നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായ പോളിനോമിയലിന്റെ ഒപ്റ്റിമൽ ഓർഡർ ഡിഗ്രി തിരഞ്ഞെടുക്കാം ഈ പ്രത്യേക കേസ് 2 ആണെങ്കിൽ അത് ഒരു ക്വാഡ്രാറ്റിക് മോഡലാണ് ഈ ഡാറ്റ വളരെ മികച്ചതാണ് ഈ പ്രത്യേക ക്രോസ് വാലിഡേഷൻ സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിഗമനം ചെയ്യുന്നത് അതാണ് തീർച്ചയായും വലതുവശത്ത് പരിശീലന സെറ്റിന്റെ വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകൾക്കായി നമ്മൾ പ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഇതിൽ നിന്ന് 200 ഡാറ്റാ പോയിന്റുകൾ ക്രമരഹിതമായി തിരഞ്ഞെടുത്ത് വ്യത്യസ്ത പോളിനോമിയൽ ഓർഡർ ഡിഗ്രിക്കായി റിഗ്രഷൻ പോളിനോമിയൽ റിഗ്രഷൻ എന്നിവ നടത്തുകയും MSE പ്ലോട്ട് ചെയ്യുകയും ചെയ്താൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കർവ് ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന മഞ്ഞ കർവ് അതുപോലെ നിങ്ങൾ മറ്റൊരു റാൻഡം സെറ്റ് എടുത്ത് അത് ചെയ്താൽ നിങ്ങൾക്കു മറ്റൊരു കർവ് ലഭിക്കും അതിനാൽ ഈ വ്യത്യസ്ത കർവുകൾ ഈ 300 വസ്തുക്കളിൽ നിന്ന് പരിശീലനമായി എടുത്ത വ്യത്യസ്ത റാൻഡം സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നു ശേഷിക്കുന്നവ പരിശോധനയായി ഉപയോഗിക്കുന്നു നിങ്ങൾ പോളിനോമിയലിന്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുമ്പോൾ വേരിയബിളിറ്റി അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകൾ അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകളുടെ പരിധി വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ t ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന വേരിയബിളിറ്റി ലഭിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു മറുവശത്ത് നിങ്ങൾ പോളിനോമിയൽ 1 അല്ലെങ്കിൽ 2 ന്റെ ഓർഡർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വേരിയബിളിറ്റി താരതമ്യേന അത്ര പ്രാധാന്യമുള്ളതല്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ സാധാരണയായി മോഡലിന് അനുയോജ്യമാണെങ്കിൽ നിങ്ങൾ നേടുന്ന എസ്റ്റിമേറ്റുകളിലോ നിങ്ങൾ നേടുന്ന മീൻ സ്ക്വയർ എറർ മൂല്യങ്ങളിലോ ഉയർന്ന വേരിയബിളിറ്റി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് ഒരു വലിയ ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതാണ് നിങ്ങൾക്ക് വളരെ ചെറിയ ഡാറ്റ സെറ്റ് ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അത് പരിശീലനവും വാലിഡേഷൻവും ആയി വിഭജിക്കാൻ കഴിയില്ല പരിശീലനത്തിന് ആവശ്യമായ സാമ്പിളുകൾ നിങ്ങളുടെ പക്കലില്ല സാധാരണഗതിയിൽ മോഡൽ നിർമ്മിക്കുന്നതിന് പരിശീലന സെറ്റിൽ നിങ്ങൾക്ക് ന്യായമായ എണ്ണം സാമ്പിളുകൾ ആവശ്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് അതിനെ 70 30 എന്നിങ്ങനെ വേർതിരിക്കാനോ വിഭജിക്കാനോ കഴിയില്ല നിങ്ങൾ മറ്റ് ചില തന്ത്രങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ തന്ത്രങ്ങൾ അഥവാ k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്രോസ് വാലിഡേഷൻ എന്ന് വിളിക്കപ്പെടുന്നവ അത് നമുക്ക് കാണാം ഇവിടെയും വാലിഡേഷൻ സെറ്റിലെ മോഡലിന്റെ പ്രകടനം നമ്മൾ പ്രവചിക്കും എന്നാൽ വാലിഡേഷൻ സെറ്റ് പരിശീലന സെറ്റിൽ നിന്ന് കൃത്യമായി വേർതിരിക്കുന്നില്ല എന്നാൽ മറുവശത്ത് ഇത് പരിശീലന സെറ്റിൽ നിന്ന് വരച്ചതാണ് നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അതിനാൽ പരിശീലനത്തിനായി വളരെ കുറച്ച് സാമ്പിളുകൾ ഉള്ളപ്പോൾ ഈ രീതികൾ k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഉപയോഗപ്രദമാണ് ഞാൻ ആദ്യം ആരംഭിക്കുന്നത് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ അല്ലെങ്കിൽ LOOCV എന്ന് വിളിക്കപ്പെടുന്ന ആണ് ഈ കേസിൽ n സാമ്പിളുകൾ നമ്മുടെ പക്കലുണ്ട് ഞാൻ പറഞ്ഞതുപോലെ n വളരെ വലുതല്ല പരിശീലനത്തിനായി 20 അല്ലെങ്കിൽ 30 സാമ്പിളുകൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ആദ്യ സാമ്പിൾ ഉപേക്ഷിച്ച് ശേഷിക്കുന്ന സാമ്പിളുകൾ നിങ്ങളുടെ മോഡൽ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ മോഡൽ നിർമ്മിക്കാൻ നിങ്ങൾ 2 3 4 വരെയുള്ള സാമ്പിളുകൾ ഉപയോഗിക്കും ഒരിക്കൽ നിങ്ങൾ മോഡൽ നിർമ്മിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ മോഡലിന്റെ പ്രകടനം പരിശോധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച ഈ സാമ്പിളിനായി പ്രവചിക്കുന്നു നിങ്ങൾക്ക് ഒരു സാമ്പിൾ MSE ലഭിക്കും അതുപോലെ അടുത്ത റൌണ്ടിൽ നിങ്ങൾ ചെയ്യുന്നത് രണ്ടാമത്തെ സാമ്പിൾ ഉപേക്ഷിച്ച് ബാക്കിയുള്ളവയെല്ലാം പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുക തുടർന്ന് വിട്ടുപോയ സാമ്പിളിൽ പ്രവചിക്കാൻ ആ മോഡൽ ഉപയോഗിക്കുക അതിനാൽ എല്ലാ സമയത്തും n സാമ്പിളുകളുടെ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു സാമ്പിൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു മോഡൽ നിർമ്മിക്കുകയും ഇടത് സാമ്പിളിൽ മോഡലിന്റെ പ്രകടനം പ്രവചിക്കുകയും ചെയ്യുന്നു മോഡൽ പാരാമീറ്ററിന്റെ ഓരോ തിരഞ്ഞെടുപ്പിനും നിങ്ങൾ ഇത് ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ നിർമ്മിക്കുകയാണെങ്കിൽ ലീനിയർ പദമായ β0 ഉം β ഉം മാത്രം പറയുകയും ഈ ഉപേക്ഷിച്ച സാമ്പിളിൽ MSE പ്രവചിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു റിഗ്രഷൻ മോഡൽ നിർമ്മിക്കും അതേ പരിശീലന സെറ്റ് ക്വാഡ്രാറ്റിക് മോഡൽ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ ഒരു മോഡൽ നിർമ്മിക്കുകയും ഇതിലും മറ്റും പ്രവചിക്കുകയും ചെയ്യും അതിനാൽ പാരാമീറ്ററുകളുടെ എല്ലാ ചോയിസുകൾക്കുമായി നിങ്ങൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉപേക്ഷിച്ച സാമ്പിളിന് ഒരു MSE ലഭിക്കും രണ്ടാമത്തെ സാമ്പിൾ ഉപേക്ഷിക്കുകയും മൂന്നാമത്തെ സാമ്പിൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ചെയ്യുക അതിനാൽ ഓരോ സാമ്പിളിനും വാലിഡേഷൻ സെറ്റിൽ ആയിരിക്കാനും മറ്റ് സന്ദർഭങ്ങളിൽ പരിശീലന സെറ്റിന്റെ ഭാഗമാകാനും അവസരമുണ്ട് അതിനാൽ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ മോഡൽ പാരാമീറ്ററുകളുടെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പിനായി നിങ്ങൾ ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കുകയാണെന്ന് നമുക്ക് പറയാം എല്ലാ സാമ്പിളുകളുടേയും മീതെ വിട്ടുപോയ സാമ്പിളിൽ പ്രവചന എററുകളുടെ ആകെ സ്ക്വയർ മൂല്യം നിങ്ങൾ കണ്ടെത്തും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതിന് ഒരു MSE ഇതിന് MSE ഇതിനായി MSE എന്നിവ ലഭിക്കുമായിരുന്നു ആദ്യത്തെ സാമ്പിളും രണ്ടാമത്തെ സാമ്പിളും മൂന്നാമത്തെ സാമ്പിളും ഒഴിവാക്കിയപ്പോൾ നിങ്ങൾ അത് ഇവിടെ ക്മുമുലേറ്റ് ചെയ്യുകയും അതെല്ലാം മീൻ എടുക്കുകയും ചെയ്യുന്നു മോഡലിലെ പാരാമീറ്ററുകളുടെ ഓരോ തിരഞ്ഞെടുപ്പിനും നിങ്ങൾ ഇത് ആവർത്തിച്ച് ചെയ്യുന്നു ഉദാഹരണത്തിന് ലീനിയർ ക്വാഡ്രാറ്റിക് ക്യൂബിക് മുതലായവ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്ന പരാമീറ്ററുകളുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി മീൻ സ്ക്വയർ എറർ അല്ലെങ്കിൽ ക്രോസ് വാലിഡേഷൻ എറർ നിങ്ങൾക്ക് ലഭിക്കും ഒരേ ഡാറ്റാ സെറ്റിനുള്ള പോളിനോമിയലിന്റെ ഡിഗ്രിയുടെ വ്യത്യസ്ത ചോയിസിനുള്ള മീൻ സ്ക്വയർ എറർ നമ്മൾ ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ ലെഫ്റ്റ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ തന്ത്രം ഉപയോഗിച്ചു അതിനർത്ഥം നമ്മൾക്ക് 300 സാമ്പിളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സാമ്പിൾ ഉപേക്ഷിച്ചു വിട്ടുപോയ സാമ്പിളിൽ പ്രവചിച്ച 299 സാമ്പിളുകൾ ഉപയോഗിച്ചാണ് മോഡൽ നിർമ്മിച്ചത് ഈ പരാമീറ്ററിന്റെ ഓരോ ചോയിസിനും നമ്മൾ പ്ലോട്ട് ചെയ്ത പോളിനോമിയലിന്റെ ഡിഗ്രി ശരാശരി സ്ക്വയർ എറർ എന്നിവയുടെ ഓരോ ചോയ്സിനും ശരാശരി ഇത് ചെയ്യുക ക്രോസ് വാലിഡേഷനിലെ എംഎസ്ഇ ക്രോസ് വാലിഡേഷൻ കൂടുതലോ കുറവോ എത്തുന്നുവെന്ന് നമ്മൾ വീണ്ടും കാണുന്നു പോളിനോമിയലിന്റെ ഡിഗ്രിയുടെ ഏറ്റവും കുറഞ്ഞ അളവ് 2 ന് തുല്യമാണ് അതിനുശേഷം അത് കൂടുതലോ കുറവോ ആയി നിലനിർത്തുന്നു ഈ കേസിൽ ഒപ്റ്റിമൽ ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ എന്ന നിലയിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഈ പ്രത്യേക ഉദാഹരണത്തിന് അത് ഏറ്റവും മികച്ചതാണ് വാലിഡേഷൻ സെറ്റ് സമീപനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻന് ഒരു നേട്ടമുണ്ട് വാലിഡേഷൻ സെറ്റ് സമീപനം പോലെ ഇത് ടെസ്റ്റ് എറർ നിരക്കിനെ അമിതമായി കണക്കാക്കുന്നില്ലെന്ന് നമുക്ക് കാണിക്കാനാകും ഇത് നടപ്പിലാക്കാൻ താരതമ്യേന ചെലവേറിയതാണ് കാരണം നിങ്ങൾ മോഡൽ n തവണ നിർമ്മിക്കുന്നു ഓരോ സാമ്പിളിനും ഒന്ന് വിട്ടുകൊടുത്തു കൂടാതെ ഹൈപ്പർ പാരാ മോഡൽ പാരാമീറ്ററിന്റെ എല്ലാ ചോയിസിനും നിങ്ങൾ ഇത് ആവർത്തിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ലീനിയർ മോഡലിനും ക്വാഡ്രാറ്റിക് മോഡലിനും ക്യൂബിക് മോഡലിനും മറ്റും നമ്മൾ ഇത് ചെയ്യണം അതിനാൽ നിങ്ങൾ ഇത് n തവണ മാത്രമല്ല മോഡലിന്റെ പാരാമീറ്ററുകളുടെ എണ്ണത്തിന്റെ ഓരോ തിരഞ്ഞെടുപ്പിനും ഇത് n തവണ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇതിന് വളരെയധികം കണക്കുകൂട്ടലുകൾ ആവശ്യമാണ് പൊതുവേ ഇത് ചിലപ്പോൾ ഒപ്റ്റിമൽ മോഡലിനേക്കാൾ അൽപ്പം കൂടുതലുള്ള ഒരു മോഡലിന് അനുയോജ്യമാകാം എന്നാൽ ചിലപ്പോൾ അത് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ നടപടിക്രമം മോഡലിന് അനുയോജ്യമാകാനും സാധ്യതയുണ്ട് k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് വിളിക്കപ്പെടുന്നതും നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടെ ഒരെണ്ണം ഉപേക്ഷിക്കുന്നതിനുപകരം നമ്മൾ ആദ്യം മുഴുവൻ പരിശീലന സെറ്റും k ഫോൾഡുകളോ K ഗ്രൂപ്പുകളോ ആയി വിഭജിക്കുന്നു ആദ്യത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ 4 ഡാറ്റാ സാമ്പിളുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ ഗ്രൂപ്പിൽ അടുത്ത 4 ഉം മറ്റും അടങ്ങിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഈ മുഴുവൻ n സാമ്പിളുകളും k ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് ഇനി ഒന്നിനെ വിടുന്നതിന് പകരം ഒരു ഗ്രൂപ്പിനെ പുറത്ത് വിടും ഉദാഹരണത്തിന് ഈ ആദ്യ കേസിൽ ഗ്രൂപ്പ് ഒന്നിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ 4 സാമ്പിളുകൾ നമ്മൾ ഉപേക്ഷിച്ച് ശേഷിക്കുന്ന സാമ്പിളുകൾ ഉപയോഗിക്കുകയും നമ്മൾ ഉപയോഗിച്ച പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു മാതൃക നിർമ്മിക്കുകയും ചെയ്യും നമ്മൾ ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കുകയാണെന്ന് പറയാം നമ്മൾ ശേഷിക്കുന്ന ഗ്രൂപ്പുകൾ ഉപയോഗിക്കുകയും ലീനിയർ മോഡൽ നിർമ്മിക്കുകയും തുടർന്ന് ഗ്രൂപ്പ് 1 ൽ ഉപേക്ഷിച്ച സാമ്പിളുകളുടെ സെറ്റ് പ്രവചിക്കുകയും ഈ ഗ്രൂപ്പിനായി MSE കണക്കാക്കുകയും ചെയ്യും അതുപോലെ അടുത്ത റൌണ്ടിൽ നമ്മൾ ഗ്രൂപ്പ് 2 വിടുക മോഡൽ നിർമ്മിക്കുക ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്കൊപ്പം നമ്മൾ ലീനിയർ മോഡൽ നിർമ്മിക്കുക തുടർന്ന് ഗ്രൂപ്പ് 2 ന്റെ പ്രവചന എറർ കണ്ടെത്തുക അങ്ങനെ അങ്ങനെ k ഗ്രൂപ്പിന്റെ പ്രവചന എറർ നമ്മൾ കണ്ടെത്തുന്നു തുടർന്ന് ഈ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ശരാശരിഎടുക്കുന്നു ഈ കേസിൽ എല്ലാ ഗ്രൂപ്പുകൾക്കുമുള്ള MSE ഇവിടെ k ഗ്രൂപ്പുകൾ ആണുള്ളത് ഈ k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഉപേക്ഷിക്കുന്നതിനുള്ള ക്രോസ് വാലിഡേഷൻ എറർ 1 k ആയിരിക്കും പാരാമീറ്ററിന്റെ ഓരോ ചോയിസിനും നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാം ലീനിയർ മോഡലിനായി നിങ്ങൾ ഇത് ചെയ്തു ക്വാഡ്രാറ്റിക് മോഡൽ ക്യൂബിക് മോഡൽ എന്നിവക്കായി ഇത് ചെയ്യണം അങ്ങനെ മുന്നോട്ട് തുടർന്ന് നിങ്ങൾക്ക് ഈ ക്രോസ് വാലിഡേഷൻ എറർ പ്ലോട്ട് ചെയ്യാം k n ആണെങ്കിൽ നിങ്ങൾ പ്രധാനമായി Leave One Out Cross Validation ലേക്ക് തിരികെ പോകുകയാണെന്ന് ശ്രദ്ധിക്കുക പ്രായോഗികമായി നിങ്ങൾക്ക് ഗ്രൂപ്പുകളുടെ എണ്ണം 5 അല്ലെങ്കിൽ 10 ന് തുല്യമാണെന്ന് തിരഞ്ഞെടുത്ത് 10 മടങ്ങ് ക്രോസ് വാലിഡേഷൻ അല്ലെങ്കിൽ 5 മടങ്ങ് ക്രോസ് വാലിഡേഷൻ നടത്താം ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വ്യക്തമായും കമ്പ്യൂട്ടേഷണൽ ചെലവ് കുറഞ്ഞതാണ് കൂടാതെ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ പാരാമീറ്ററിന്റെ ഓരോ ചോയിസിനും n തവണ ഒരു മോഡൽ ഫിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കാണുമ്പോൾ k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ പരാമീറ്ററിന്റെ ഓരോ ചോയ്സിനും മോഡൽ ബിൽഡിംഗ് k തവണകൾ ചെയ്യും ഈ മൈൽ ഓട്ടോ ഡാറ്റയ്ക്കായി നമ്മൾ വീണ്ടും ഈ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ചിത്രീകരിച്ചു വീണ്ടും നമ്മൾ പോളിനോമിയലിന്റെ വ്യത്യസ്ത ഡിഗ്രികൾക്കായി MSE പ്ലോട്ട് ചെയ്യുന്നു നമ്മൾ 10 മടങ്ങ് ക്രോസ് വാലിഡേഷൻ ഉപയോഗിച്ചു നമ്മൾ ഈ എറർ പ്ലോട്ട് ചെയ്യുന്നു ഈ പ്രത്യേക ഡാറ്റയ്ക്ക് ഒരു ക്വാഡ്രാറ്റിക് മോഡലാണ് ഏറ്റവും മികച്ചതെന്ന് കാണിക്കുന്ന ഏറ്റവും കുറഞ്ഞ എറർ ഇവിടെയും 2 ൽ സംഭവിക്കുന്നത് നമ്മൾ കാണും അതിനുശേഷം എറർ യഥാർത്ഥത്തിൽ പരന്നതാണ് അതിനാൽ ഒരു മോഡലിന്റെ ഒപ്റ്റിമൽ പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന രീതി അല്ലെങ്കിൽ സമീപനമാണ് ക്രോസ് വാലിഡേഷൻ ഇത് ക്ലസ്റ്ററിംഗിൽ സംഭവിക്കുന്നു ഇത് നോൺ ലീനിയർ മോഡൽ ഫിറ്റിംഗിലും പ്രിൻസിപ്പൽ കോംപോണന്റ് അനാലിസിലിലും സംഭവിക്കും ഇത് ഉപയോഗപ്രദമാണ് ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം നിർണ്ണയിക്കുന്നതിനുള്ള ക്രോസ് വാലിഡേഷൻത്തിന്റെ ഉപയോഗം പിന്നീട് ക്ലസ്റ്ററിംഗ് ലെക്ചറുകളിൽ നിങ്ങൾ കാണും